ഇനി ഈ 7 മത്തെ ഉദാഹരണം നോക്കുക ഈ ഫിഗർ 2 18 ലെ സർക്യൂട് ൽ വോൾടേജ് V 1 ഉം V 2 ഉം കണ്ടു പിടിക്കുക അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന സർക്യൂട് ഇത് 40 വോൾട് സോഴ്സ് പിന്നെ 4 റെസിസ്റ്റർ പിന്നെ ഇത് 6 റെസിസ്റ്റർ പൊളാരിറ്റി തന്നിട്ടുണ്ട് ഇനി എന്താണ് ചെയ്യുന്നത് എന്ന്നോക്കാം നമ്മുടെ ചോദ്യം ഇതാണ് ഇവിടെ കറന്റ് എന്താണ് ഈ 4 6 പിന്നെ ഈ 40 വോൾട് ഇതെല്ലാം തന്നെ സീരീസ് ആണ് അതിനാൽ കണ്ടു പിടിക്കാൻ എളുപ്പമാണ് ഈ സർക്യൂട് ലൂടെ ഒഴുകുന്ന കറന്റ് സെയിം തന്നെ ആണ് നാം ആ കറന്റ് ക്ലോക്ക് വൈസ് ആയിഎടുക്കുന്നു അതിന്റെ അർഥം ഈ i എന്നത് ഇങ്ങനെ ആണ് ഒഴുകുന്നത് ഇതാണ് i അത് മനസിലാക്കുക ഈ i ഈ ലൈനിൽ കൂടെ നീങ്ങുന്നു പിന്നെ ഇവിടെ വരുന്നു അതിനാൽ ഈ കറന്റ് i ഈ ലൈനിൽ കൂടെ നീങ്ങുന്നു പിന്നെ ഇവിടെ തിരിച്ചു വരുന്നു ഈ റെസിസ്റ്ററിൽ ഇവിടെ എന്നിങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നു നാം ഇവിടെ ഓംസ് ലോ ohm's law KVL എന്നിവയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് KCL ഇവിടെ KVL പിന്നെ ഓംസ് ലോ ohm's law എന്നിവ ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ആദ്യം ഇത് ക്ലീൻ ആക്കാൻ പോകുന്നു ഓംസ് ലോ വച്ച് നമുക്ക് പറയാം ഇവിടെ v1 എന്നത് 4 i ആണ് എന്തെന്നാൽ ഇത് 4 ആണ് അപ്പോൾ 4 i ഇവിടെ കറന്റ് പോസിറ്റീവ് ടെർമിനൽ കൂടെ ആണ് പ്രവേശിക്കുന്നത് ഇവിടെ ഈ വേവ് നു പൊളാരിറ്റി ഉണ്ട് കറന്റ് പ്രവേശിക്കുന്നത് ടെർമിനൽ കൂടെ ആണ് ഈ റെസിസ്റ്ററുകളും നാം പിന്നീട് നോക്കുന്നതാണ് എന്നാൽ ഇത്പാസ്സീവ് ആണ് എന്ന് നാം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ കറന്റ് ഇത് പ്രവേശിക്കുന്നത് ടെർമിനൽ കൂടെ ആണ് അപ്പോൾ v2 എന്നത് 6 I ആണ് അതെ അപ്പോൾ v2 എന്നത് 6 I അപ്പോൾ ഇത് ടെർമിനലിൽ പ്രവേശിക്കുമ്പോൾ നാം നേരത്തെ കണ്ടു v1 എന്നത് 4 i ആണ് എന്നാൽ ഇവിടെ ടെർമിനൽ ആണ് അപ്പോൾ v2 എന്നത് 6 i ആണ് ഇനി ഇവിടെ ഈ ലൂപിൽ KVL അപ്ലൈ ചെയ്യുക ഇതിലൂടെ ക്ലോക്ക് വൈസ് നീങ്ങുകയാണ് ഞാൻ ആദ്യമേ ഇതെല്ലാം കാണിച്ചിരിക്കുന്നു ഞാൻ ക്ലോക്ക് വൈസ് ആണ് നീങ്ങുന്നത് അതായതു ഇവിടെ ടെർമിനൽ ആണ് ഇങ്ങനെ ക്ലോക്ക് വൈസ് നീങ്ങുമ്പോൾ ആദ്യം നാം കാണുക ടെർമിനൽ ആയിരിക്കും അത് 40 വോൾട് സോഴ്സ് ആണ് അതിന്റെ അർഥം നാം ഇവിടെ ഇങ്ങനെ ആകും എഴുതുക പിന്നീട് നാം കാണും അത് 40 ആയിരിക്കും പിന്നീട് നാം ക്ലോക്ക് വൈസ് നീങ്ങുമ്പോൾ കാണുന്നത് ടെർമിനൽ ആണ് അതിനാൽ ഇത് v1 ആണ് വീണ്ടും നാം ഇത്പോലെ നീങ്ങുന്നു അപ്പോൾ ടെർമിനൽ ആണ് കാണുക അപ്പോൾ v2 0 അതിനാൽ 40 v 1 v 2 0 ഇനി v 1 4 I നാം അത് ആദ്യം കണ്ടു അത് പിന്നീട് കാണിക്കാം അതിനാൽ 40 v 1 4 I എന്തെന്നാൽ v1 പിന്നെ ഇത് v2 അത് മൈനസ് ടെര്മിനലിലൂടെ പ്രവേശിക്കുന്നതിനാൽ v 2 6 i 0 ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും 10 i 40 അതിന്റെ അർഥം i എന്നത് 4 ആമ്പിയർ ആണ് അതിനാൽ ഞാൻ ഇത്ക്ലീൻ ആക്കുന്നു ഈ i എന്നത് 4 ആംപിയർ ആണ് അതായതു 40 v 1 v 2 ഇനി ഇതിൽ v 1 എന്നത് 4 i ആക്കുക അതോടൊപ്പം v 2 6 i ഇക്വേഷൻ നമ്പർ തന്നിരിക്കുന്നു 1 2 അത് നാം കൊടുത്താൽ 10 i 40 കിട്ടും അതായതു i 4 ആംപിയർ അപ്പോൾ ഈ i യുടെ വാല്യൂ ഇക്വേഷൻ 1 ൽ കൊടുത്താൽ v 1 16 കിട്ടും എന്തെന്നാൽ v1 എന്നത് 4 i ആണ് അതിനാൽ 4 i ഇതിൽ i 4 ആംപിയർ ആണ് v 2 6 i ആണ് അപ്പോൾ v 2 24 വോൾട് ആണ് ഇതിൽ v2 ന്റെ പൊളാരിറ്റി എന്നത് എന്നിങ്ങനെ ആണ് ഇത് 24 ആണ് ഇത് റിവേഴ്സ് ആക്കിയാൽ ഇത് പിന്നെ ഇത് എന്നിങ്ങനെ ആകും അത് മനസ്സിലാക്കാവുന്ന കാര്യം ആണ് ഇനി നമുക്ക് പതിയെ ഡിപെൻഡന്റ് സോഴ്സ് ലേക്ക് വരാം സർക്യൂട് പ്രോബ്ലെത്തിൽ നാം അല്പം മെച്ചപെട്ടിട്ടുണ്ട് ഇപ്പോൾ അത് കൊണ്ട് ഈ മാർദവം അല്പം കുറഞ്ഞു വരും പടി പടി ആയി അതോടൊപ്പം കട്ടിയും കൂടി വരും ഈ സർക്യൂട്ടിൽ നമുക്ക് കണ്ടെത്തേണ്ടത് v0 യും i0 യും ആണ് ഈ സർക്യൂട്ടിൽ ഇത് ക്ലോക്ക് വൈസ് ഡയറൿഷൻ ആണ് എടുക്കുക എന്നാൽ അത് ആന്റി ക്ലോക്ക് വൈസ് ആയാലും കുഴപ്പമില്ല ഇനി ചോദ്യം എന്തെന്ന് നോക്കുക ഇവിടെ ഒരു 6 വോൾട് സോഴ്സ് ഉണ്ട് പിന്നെ ഇവിടെയും ഒരു 12 വോൾട് അതിൽ പൊളാരിറ്റി അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇത് ഒരു 2Ω റെസിസ്റ്റൻസ് ഇത് ഒരു ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് അത് 2v0 പിന്നെ ഈ v0 എന്നത് ഇവിടെ ആണ് ഈ v0 എന്നത് ഈ 3Ω റെസിസ്റ്ററിനു കുറുകെ ആണ് പിന്നെ കറന്റ്പ്രവേശിക്കുന്നത് ടെർമിനലിൽ കൂടെ ആണ് ഈ ലൂപ്പിൽ ഞാൻ ക്ലോക്ക് വൈസ് ഡയറൿഷൻ ആണ് എടുക്കുക അതിനാൽ കറന്റ്പ്രവേശിക്കുന്നത് ടെർമിനലിൽ കൂടെ ആണ് ഇവിടെയും കറന്റ്പ്രവേശിക്കുന്നത് ടെർമിനലിൽ കൂടെ ആണ് എന്നാൽ ഇവിടെ ടെർമിനൽ ആണ് അതിനാൽ നമുക്ക് v0 i എന്നിവ കണ്ടുപിടിക്കുക ഇനി നമുക്ക് ആദ്യം KVL അപ്ലൈ ചെയ്യണം നാം ഇവിടെ KVL അപ്ലൈ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് നാം ക്ലോക്ക് വൈസ് ആയാണ് നീങ്ങുന്നത് u ന്റെ ഗൈൻ എന്നത് ഇവിടെ കൊടുക്കുന്നു 2 3 പ്രോബ്ലം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് എഴുതുക ഇല്ല അപ്പോഴേക്കും കോൺസെപ്റ് ക്ലിയർ ആകും ഞാൻ ഇവിടെ ക്ലോക്ക് വൈസ് ദിശയിൽ ആണ് പോകുക ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ ക്ലോക്ക് വൈസ് ദിശയിൽ ആണ് പോകുക അപ്പോൾ ആദ്യം വരിക 6 ആണ് ഇവിടെ ആദ്യം നെഗറ്റീവ് ടെർമിനൽ ആണ് ആദ്യം വരിക അതിനാൽ 6 പിന്നെ ഇവിടെ വരിക വോൾടേജ് ആണ് അത്ഞാൻ മാർക്ക് ചെയ്യുന്നില്ല ഇവിടെ ടെർമിനലിൽ ആണ് പ്രവേശിക്കുക അപ്പോൾ ഇവിടെ വോൾടേജ് ഡ്രോപ്പ് ആണ് അത് ഓംസ് ലോ ആണ് അതിനാൽ ഇത് 2 i ആയിരിക്കും അതിനാൽ ഇത് ടെർമിനലിൽ ആണ് അത് കൊണ്ട് 2 i ഇത് വീണ്ടു൦ ടെർമിനൽ ആണ് അതുകൊണ്ടു ഇത് v0 ഇനി ഇവിടെ ടെർമിനൽ ആണ് അതിനാൽ 2 ഇവിടെയും ടെർമിനൽ ആണ് അതിനാൽ ഇത് v0 0 ഇത് KVL ആണ് അപ്പോൾ ഇത് 6 2 i എന്തെന്നാൽ v iR R 2 പിന്നെ പോസിറ്റീവ് ടെർമിനൽ ആണ് ആദ്യം വരിക അതിനാൽ 2 i ഇവിടെയും പോസിറ്റീവ് ടെർമിനൽ അതിനാൽ 2v0 എന്നാൽ ഇവിടെ ടെർമിനൽ അതിനാൽ 2 എന്തെന്നാൽ ഇത് വോൾടേജ് സോഴ്സ് ആണ് ഇവിടെയും ടെർമിനൽ ഇത് v0 ആണ് അത് 3i അത് നാം പിന്നെ നോക്കുന്നതാണ് ഇതാണ് ഇക്വേഷൻ അത് 0 ആണ് ഇനി ഈ ഇക്വേഷൻ എഴുതാം അത് 6 2 i 2 v0 2 v0 0 എന്നാണ് എഴുതിയത് ഇവിടെ 6 ഉം 2 ഉം ഉള്ളതിനാൽ നമുക്കെഴുതാം 8 2 i v0 2 v0 v0 0 ഇതാണ് ഇക്വേഷൻ 1 ഇനി ഈ 6Ω ഓംസ് ലോ ohm 's law അപ്ലൈ ചെയ്യാം അത് v0 3 i എന്നതായിരിക്കും എന്തെന്നാൽ ഇവിടെ കറന്റ് പ്രവേശിക്കുന്നത് ടെർമിനലിൽ ആണ് അതിനാൽ v0 3 i അത് ഇക്വേഷൻ 2 ൽ കൊടുത്തു നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അത് 8 2 i 3 i 0 എന്ന് ലഭിക്കും 8 i i 8 ആംപിയർ എന്ന് ലഭിക്കും നാം കറന്റ് എന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആണ് എടുത്തിരുന്നത് ഇപ്പോൾ അത് വിപരീത ദിശയിൽ ആയി അതിന്റെ അർഥം ഇവിടെ i എന്നത് വരികയാണ് അത് 8 ആംപിയർ ആണ് ഈ 8 എന്നതിന്റെ അർഥം കറൻറ് എന്നത് ഇങ്ങനെ ഒഴുകുന്നു എന്നതാണ് ഈ 8 ആമ്പിയർ കറന്റ് എന്നത് ഇതിലെ ആണ് ഒഴുകുന്നത് ഇവിടെ എനിക്ക് കിട്ടി i 8 പിന്നെ v0 3 i എന്തെന്നാൽ കറന്റ് എന്നത് പ്രവേശിക്കുന്നത് ടെര്മിനലിലൂടെ ആണ് അതിനാൽ v0 3 i ആണ് ഇവിടെ i 8 ആണ് അതിനാൽ v 0 എന്നത് 24 വോൾട് ആണ് ഇവിടെ നോക്കിയാൽ അറിയാം v 0 എന്നത് 24 വോൾട് ആണ് അത് ആണ് ഒരിക്കൽ കൂടെ നോക്കുക കറന്റ് എന്നത് ഈ ഡയറക്ഷനിൽ ആണ് ഒഴുകുക ഈ സൈൻ അർത്ഥമാക്കുന്നത് കറന്റ് പോകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയാണ് ഇവിടെ v 0 എന്നത് 24 വോൾട് കിട്ടി അപ്പോൾ മനസ്സിലാകും ഇത് പാസ്സീവ് എലമെന്റ് ആണ് നമുക്കറിയാം റെസിസ്റ്റർ എന്നത് പാസ്സീവ് എലമെന്റ് ആണ് അതിനാലാണ് കറന്റ് ഇവിടെ പ്രവേശിക്കുന്നത് അതായതു പോസിറ്റീവ് ടെർമിനൽ അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിൽ ഇപ്പോൾ ഈ സർക്യൂട്ടിനെ കുറിച്ച് ഉള്ള അറിവ് വച്ച് നാം ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നു അതിൽ നിന്നും ഏതു സോഴ്സ് ആണ് അബ്സോർബ് ചെയ്യുന്നത് ഏതു സോഴ്സ് ആണ് സപ്ലൈ ചെയ്യുന്നത് എന്നും അറിയാനാകും ഇനി ഞാൻ ഇത് ക്ലീൻ ആക്കട്ടെ ഇത് എന്താണ് എന്താണ് ഞാൻ ഇവിടെ നിർദേശിച്ചത് ഈ പ്രോബ്ലെത്തിൽ നമുക്ക് ബാലൻസ് ഇക്വേഷൻ ആണ് വേണ്ടത് നമുക്ക് കിട്ടേണ്ടത് സപ്ലൈ ചെയ്തത് എന്നത് അബ്സോർബ് ചെയ്തതിനു തുല്യം ആയിരിക്കും അപ്പോൾ ഈ കേസിൽ എന്താണ് സംഭവിക്കുക ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു അത് നിങ്ങൾക്കു വളരെ ലളിതം ആയിരിക്കും ഇവിടുത്തെ വോൾടേജ് എന്നത് v ആണ് അതിനാൽ ഇതിനു കുറുകെ ഉള്ള വോൾടേജ് എന്നത് v വോൾട് ആണ് അത് 2 i ആണ് നമുക്ക് ആദ്യം i കിട്ടിയിരുന്നു അത് 8 ആംപിയർ ആണ് അപ്പോൾ 2 8 അത് 16 വോൾട് ആണ് നമുക്ക് എപ്പോൾ ഈ വോൾടേജ് 16 കിട്ടുമോ നമുക്ക് മനസിലാക്കാം കറന്റ് ഈ ഡയറക്ഷനിൽ ആണ് അതിനാൽ ഇത് ടെർമിനൽ ആണെന്ന് നമ്മൾ അനുമാനിക്കുന്നു അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഈ ടെർമിനൽ എന്നത് ആയിരിക്കും പിന്നെ ഇത് ടെർമിനൽ ആയിരിക്കും കറന്റ് എന്നത് 8 ആംപിയർ ആയിരിക്കും അത് ഇങ്ങനെ ആയിരിക്കും ഒഴുകുക അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ v 2 i ആയിരിക്കും പിന്നെ i 8 അത് കൊണ്ട് v എന്നത് 16 വോൾട് ആയിരിക്കും പൊളാരിറ്റി എന്നത് തല തിരിഞ്ഞു യഥാർത്ഥത്തിൽ പൊളാരിറ്റി എന്നത് ഇത് പിന്നെ ഇത് എന്നായിരിക്കും കറന്റ് ഈ റെസിസ്റ്ററിൽ പ്രവേശിക്കുന്നത് ശ്രദ്ധിക്കുക കറന്റ് ഈ പോസിറ്റീവ് ടെർമിനലിൽ ആണ് പ്രവേശിക്കുക ഞാൻ എല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ കോഴ്സിന്റെ അസൈൻമെന്റ് ചെയ്യുന്നത് വഴി നിങ്ങൾ നിങ്ങൾ കൂടുതൽ പഠിക്കും ഇനി മറ്റൊരു കോഴ്സ് ആണ് നാം എടുക്കേണ്ടത് നമുക്ക് i 0 യും v 0 യും ആണ് കണ്ടു പിടിക്കേണ്ടത് അത് ഫിഗർ 2 ൽ തന്നിരിക്കുന്നു 3 എലെമെന്റുകൾ ഇവിടെ പാരലൽ ആണ് ഒരു കറന്റ് സോഴ്സ് ഇവിടെ ഉണ്ട് അത് ഒരു ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ആണ് ഇത് ആണ്കറന്റ് i 0 പിന്നെ ഇതാണ് വോൾടേജ് v 0 ഇത് 3 ആമ്പിയർ കറന്റ് സോഴ്സ് ആണ് നമുക്ക് i 0 യും v 0 കണ്ടു പിടിക്കണം നാം എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു നോഡിൽ നാം KCL അപ്ലൈ ചെയ്യുക നാം KCL എങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യും ഞാൻ അത് ചെയ്യുന്നു ഇത് ഒരു 3 ആമ്പിയർ കറന്റ് സോഴ്സ് ആണ് ഈ നോഡിൽ 3 ആമ്പിയർ കറന്റ് പ്രവേശിക്കുകയാണ് ഇത് നോഡ് a ആണ് 5 i 0 ആണ് ഇവിടെ പ്രവേശിക്കുന്ന കറന്റ് ഉം 0 5 i 0 ആണ് ഇനി i 0 ഈ കറന്റ് i 0 എന്നത് ഈ നോഡിൽ നിന്നും പുറത്തേക്കാണ് പോകുന്നത് അതിനാൽ നാം ഈ നോഡ് a യിൽ KCL അപ്ലൈ ചെയ്താൽ ഈ i 0 എന്നത് പുറത്തേക്കു പോകുന്ന കറന്റ് ആണ് അത് ഈ 2 അകത്തേക്ക് വരുന്ന കറന്റ് കൾ ആണ് ഇവിടെ പുറത്തേക്കു പോകുന്ന കറന്റ് i 0 ആണ് അപ്പോൾ ഈ i 0 എന്നത് യഥാർത്ഥത്തിൽ 3 ഈ 0 5 i 0 ആണ് അതിന്റെ അർഥം 0 5 i 0 3 ആണ് എന്തെന്നാൽ i 0 0 5 i 0 അതിന്റെ അർഥം i 0 എന്നത് 6 ആംപിയർ കറന്റ് ആണ് മനസ്സിലായില്ലേ അത് കിട്ടി എന്ന് കരുതുന്നു അതിനാൽ ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു ഞാൻ അത് ചെയ്തിരിക്കുന്നു സോറി ഇനി i 3 ആണെങ്കിൽ i 0 6 ആംപിയർ ആയിരിക്കും ഇനി v0 4 i 0 ആണ് ഈ കറന്റ് പോസിറ്റീവ് ടെർമിനലിൽ ആണ് പ്രവേശിക്കുക അപ്പോൾ ഓംസ് ലോ പറയുക v0 4 i 0 എന്നാണ് i 0 എന്നത് 6 ആംപിയർ ആണ് അപ്പോൾ v0 എന്നത് 4 6 ആണ് അത് 24 വോൾട് അപ്പോൾ v0 24 വോൾട് ഇതെല്ലാം തന്നെ ഞാൻ ചെയ്യുന്നില്ല അത് നിങ്ങൾക്കു ചെയ്യാനുള്ള ഒരു എക്സർസൈസ് ആണ് ഈ എല്ലാ കേസിലും സപ്ലൈ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത പവർ കണ്ടുപിടിക്കുക ഇനി അടുത്തതു ഇതൊരു സീരീസ് പാരലൽ സർക്യൂട് ഈ സർക്യൂട് ആണ് തന്നിരിക്കുന്നത് നമുക്ക് i 1 പിന്നെ v 0 എന്നിവ കണ്ടെത്തുക അതായതു i 1 എന്ന കറന്റ് പിന്നെ v 0 എന്ന വോൾടേജ് നമുക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം തന്നിരിക്കുന്നു ഇത് 10 ആംപിയർ കറന്റ് സോഴ്സ് പിന്നെ ഇവിടെ 10 വോൾട് അപ്പോൾ ഇത് ഒരു 10 വോൾട് വോൾടേജ് സോഴ്സ് പിന്നെ ഇത് 10 ആംപിയർ കറന്റ് സോഴ്സ് ഇത് ഒരു 5 Ω റെസിസ്റ്റർ പിന്നെ 10 Ω റെസിസ്റ്റർ ഇത് വോൾടേജ് v 0 ഇതാണ് ലൂപ്പ് 1 ഇനി ചോദ്യം എന്നത് ഇതാണ് കറന്റ് i 1 ഇതാണ് ബ്രാഞ്ച് കറന്റ് ഞാൻ അത് മാർക്ക് ചെയ്യുന്നു ഇത് 10 ആംപിയർ കറന്റ് സോഴ്സ് ആണ് ഈ 10 ആംപിയറും ഇവിടെ പ്രവേശിക്കുന്നു അതും ഞാൻ മാർക്ക് ചെയ്യുന്നു ഇനി ഔട്ട്ഗോയിംഗ് കറന്റ് അത് ഞാൻ ഇവിടെ എടുക്കുന്നു ഞാൻ എഴുതുന്നു i 1 10 നാം നോക്കേണ്ട ഔട്ട്ഗോയിംഗ് കറന്റ് എന്നത് ഈ നോഡിനെ അനുസരിച്ചു വേണം പറയാൻ ഇത് നോഡ് a ആണെന്ന് അനുമാനിക്കുക ഇതാണ് നമുക്ക് വേണ്ട കറന്റ് i അതാണ് ഔട്ട്ഗോയിംഗ് കറന്റ് i ഇൻകമിങ് കറന്റ് അതിനാൽ ഞാൻ i i 1 10 എന്ന് ഞാൻ എഴുതുന്നു അത് ഈ ബ്രാഞ്ചിലൂടെ ആണ് ഒഴുകുക ഞാൻ അത് ക്ലീൻ ആക്കുന്നു അത് മനസ്സിലായി എന്ന് കരുതുന്നു ഇവിടെയും നമുക്ക് KVL അപ്ലൈ ചെയ്യുക ഈ ലൂപ്പ് 1 ൽ അപ്പോൾ ഈ ലൂപ്പ് 1 ൽ അപ്ലൈ ചെയ്യുന്നു അതും ക്ലോക്ക് വൈസ് ആയാണ് ചെയ്യുന്നത് ഞാൻ അത് വീണ്ടും എടുത്തു പറയുന്നു നമ്മൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയാണ് പോകുക അപ്പോൾ നമുക്ക് കിട്ടുക ടെർമിനൽ ആണ് അതിനാൽ 10 വോൾട് ആയിരിക്കും അതിനാൽ നമ്മൾ എഴുതുന്നു 10 രണ്ടാമത്തെ കാര്യം ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു അത് തന്നിട്ടില്ലെങ്കിൽ നാം മാർക്ക് ചെയ്യേണ്ടതാകുന്നു നാം ക്ലോക്ക് വൈസ് ആയി നീങ്ങുന്നു ഇത് റെസിസ്റ്റർ ആണ് അത് പാസ്സീവ് എലമെന്റ് ആണ് അതിനാൽ അത് അബ്സോബ് ചെയ്യുന്നു അതിനാൽ കറന്റ് പോസിറ്റീവ് ടെർമിനലിൽ ആണ് പ്രവേശിക്കുക അപ്പോൾ കറന്റ് പോസിറ്റീവ് ടെർമിനലിൽ പ്രവേശിക്കുന്നു ഇനി ഈ ബ്രാഞ്ചിലൂടെ ഉള്ള കറന്റ് i 1 ആണ് അപ്പോൾ ഓംസ് ലോ വച്ച് ഇത് 5 i 1 അത് 10 5 i 1 ഇനി നാം ഇങ്ങോട്ടു പോകുന്നു ഇത് 10 Ω റെസിസ്റ്റർ ആണ് അപ്പോൾ ഇത് i 1 10 ഈ ഇക്വേഷൻ എന്നത് ഇങ്ങനെ എഴുതാം അത് നമുക്ക് ഇങ്ങനെ വേണ്ടമെങ്കിൽ ആക്കാം 10 5 i 1 v0 ഇനി ഈ v 0 ഇവിടെ കറന്റ് ശരിക്കും പ്രവേശിക്കുകയാണ് ഈ i 1 10 എന്നത് ഈ പോസിറ്റീവ് ടെർമിനലിൽ പ്രവേശിക്കുകയാണ് അപ്പോൾ ഇത് 10 i 1 10 ഇതാണ് i 1 പിന്നെ ഇത് i 1 10 ഞാൻ ഇത് നേരെ എഴുതുന്നു ഇത് 0 ആണ് ഞാൻ പല ഇക്വേഷനുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓർക്കുക ഇത് 0 ആണ് ഞാൻ ഇത് വരെ ഒന്നും മിസ് ചെയ്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അതിനു സാധ്യത ഉണ്ട് അതിനാൽ അതാണ് ഞാൻ എഴുതുന്നത് 10 5 i 1 10 i 1 10 ഇനി അത് 0 ആക്കിയിട്ടു ലളിതമാക്കുക രണ്ടു സൈഡ് ഉം 5 വച്ച് ഡിവൈഡ് ചെയ്യുക അതിനാൽ അത് 2 i 1 2 i 1 20 ആണ് ഞാൻ അർത്ഥമാക്കുന്നത് ഈ ഇക്വേഷന്റെ രണ്ടു സൈഡും 5 വച്ച് ഡിവൈഡ് ചെയ്യുക അതിനാൽ i 1 എന്നത് 6 ആംപിയർ ആണ് അതിന്റെ അർഥം ഇവിടെ ഡയറക്ഷൻ എന്നത് വിപരീതം ആണ് എപ്പോഴൊക്കെ ഞാൻ i1 6 എഴുതുമോ 6 ആംപിയർ കറന്റ് ഈ ഡയറക്ഷനിൽ ആകും ഒഴുകുക അത് പ്രശ്നമല്ല ഇത് പോലെ എല്ലാം ചെയ്യുകയാണേൽ നമുക്ക് എല്ലാ റിസൾട്ടും ലഭിക്കുന്നതാണ് അതിനാൽ ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു ഇനി v0 എന്നത് 10 i 1 10 ആണ് അപ്പോൾ 10 i 1 എന്നത് 6 ആണ് 10 6 അത് 40 വോൾട് ആണ് അതിനാൽ v0 എന്നത് 40 വോൾട് ഇനി i1 എന്നത് 6 ആംപിയർ അതിന്റെ അർഥം ഈ 6 ആംപിയർ കറന്റ് എന്നത് ഈ 10 വോൾട് സോഴ്സ് ന്റെ പുറത്തേക്കാണ് ഒഴുകുന്നത് ഞാൻ പറഞ്ഞു 6 എന്നത് ഈ ഡയറക്ഷൻ ആണ് അതായതു പ്രവേശിക്കുകയാണ് എന്നത് ഈ ഡയറക്ഷൻ എന്നതാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ കറന്റ് ഈ ഡയറക്ഷൻ ആണ് അതോടപ്പ൦ ഇങ്ങനെ ആണ് പ്രവേശിക്കുന്നതെങ്കിൽ ഇത് ടെർമിനൽ അപ്പോൾ ഈ 10 വോൾട് സോഴ്സ് എന്നത് യഥാർത്ഥത്തിൽ അബ്സോർബ് ചെയ്യുകയാണ് എന്തെന്നാൽ കറൻറ് 10 ടെർമിനലിൽ നിന്നും പുറത്തേക്ക് ആണെങ്കിൽ ആണ് സപ്ലൈ ഇനി ടെര്മിനലിലേക്കു പ്രവേശിക്കുകയാണേൽ അബ്സോർബ് ചെയ്യുകയാണ് ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു ഇനി ഈ 10Ω റെസിസ്റ്റർ ലൂടെ ഉള്ള കറന്റ് തന്നിരിക്കുന്നു അത് 4 ആംപിയർ ആണ് 10Ω റെസിസ്റ്റർ ലൂടെ ഉള്ള കറന്റ് ഞാൻ പറഞ്ഞു ഇവിടെ വോൾടേജ് സോഴ്സ് എന്നത് അബ്സോർബ് ആണ് ഇവിടെയും ഓരോ ഇലക്ട്രിക്കൽ എലെമെന്റിൽ സപ്ലൈ അല്ലെങ്കിൽ അബ്സോർബ് ആണോ എന്നും കണ്ടെത്തണം റെസിസ്റ്റർ എന്നത് അബ്സോർബ് ആണ് അതിനാൽ ഇത് അബ്സോർബ് അപ്പോൾ ഏതാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ 5 പുറത്തേക്കു ആവശ്യമുണ്ട് ഇവിടെ വാല്യൂ ശ്രേണി മാച്ച് ചെയ്യുന്നു ഇനി മറ്റൊരെണ്ണം ഇത് ഫിഗർ 2 ൽ തന്നിരിക്കുന്ന സർക്യൂട്ടിലെ കറന്റ് വോൾടേജ് എന്നിവ കണ്ടു പിടിക്കാൻ ആണ് നമുക്ക് കറന്റ് വോൾടേജ് എന്നിവ കണ്ടു പിടിക്കണം ഒരു കറന്റ് എന്നത് i1 ആണ് പിന്നെ ഇത് i2 അത് ഈ ബ്രാഞ്ചിൽ ആണ് പിന്നെ ഇവിടെ i3 ഇവിടെ വോൾടേജ് പൊളാരിറ്റി യോട് കൂടെ തന്നിരിക്കുന്നു ഇവിടെ v1 പിന്നെ ഇത് v 2 പിന്നെ ഇത് v3 ഈ v1 എന്നത് ഈ 16Ω റെസിസ്റ്ററിനു കുറുകെ ഉള്ള വോൾടേജ് ആണ് v 2 എന്നത് 6 Ω നു കുറുകെ v3 എന്നത് 12 Ω റെസിസ്റ്ററിനു കുറുകെയും ഇവിടെ 2 ലൂപ്പുകൾ ആണുള്ളത് അത് രണ്ടും ക്ലോക്ക് വൈസ് ആയാണ് എടുക്കുക ഈ 2 ലൂപ്പിൽ ഒരെണ്ണം ഇവിടെ ആണ് ഇനി നമുക്ക് ഇതിലെ വോൾടേജ് കറന്റ് എന്നിവ കണ്ടെത്തണം അത് i 1 i2 i 3 എന്നീ കറന്റ് പിന്നെ v 1 v 2 v 3 എന്നീ വോൾടേജ് എന്നിങ്ങനെ ആണ് ഇവിടെ ഒരു വോൾടേജ് സോഴ്സ് മാത്രമാണുള്ളത് ഇനി നമുക്ക് ഈ നോഡ് p യിൽ KCL അപ്ലൈ ചെയ്യുക ഇതാണ് നോഡ് p ശ്രദ്ധിക്കുക ഇതാണ് നോഡ് p ഇനി ഈ ലൂപ്പ് 1 ൽ KVL അപ്ലൈ ചെയ്യുന്നു അത്ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇത് പോലെ നീങ്ങിയാൽ ലഭിക്കുക ടെർമിനൽ പിന്നെ പോസിറ്റീവ് എന്തെന്നാൽ നാം ക്ലോക്ക് വൈസ് ആയാണ് നീങ്ങുക അതിനാൽ ഇത് 60 ആണ് പിന്നെ ഇത് v 1 നാം ക്ലോക്ക് വൈസ് ആയാണ് നീങ്ങുക ഇവിടെ ടെർമിനൽ ആണ് വരിക ഞാൻ ഇത് ഈ നീല മഷി ഉപയോഗിച്ച് വീണ്ടു൦ വീണ്ടും അടയാളപ്പെടുത്തില്ല ഇനി ഇത് മനസിലാക്കാം നാം ക്ലോക്ക് വൈസ് ആയാണ് നീങ്ങുക ഇവിടെ ടെർമിനൽ ആണ് വരിക അതിനാൽ ഇത് v1 ഇവിടെയും നാം ടെർമിനൽ ആണ് കാണുക അതിനാൽ v20 ഇതാണ് ലൂപ്പ് 1 ഇനി നാം ലൂപ്പ് 2 ൽ KVL അപ്ലൈ ചെയ്യുന്നു നാം ഇവിടെയും ക്ലോക്ക് വൈസ് ആയി നീങ്ങുന്നു നാം കാണുന്നത് ടെർമിനൽ ആണ് അതിനാൽ ഇത് v 3 ഇനി ഇങ്ങനെ പോകുമ്പോൾ നാം കാണുക ടെർമിനൽ ആണ് അത് v20 അതിനാൽ v 2 v 3 0 അതിന്റെ അർഥം ക്ലോക്ക് വൈസ് നീങ്ങിയാൽ ആദ്യം കാണുക ഈ ടെർമിനൽ ആയിരിക്കും അത് v2 പിന്നെ കാണുക ടെർമിനൽ അത് v3 അതിനാൽ v 2 v 3 അതും 0 തന്നെ അതിനാൽ പറയാം v 3 v 2 ആണ് ഇനി ഓംസ് ലോ വച്ച് പറയാം ഇവിടെ നാം ക്ലോക്ക് വൈസ് ആയി തന്നെ വീണ്ടും പോകുന്നു ഇത് i1 ആണ് അത് ടെര്മിനലിലേക്കാണ് പ്രവേശിക്കുന്നത് അതിനാൽ പറയാം v 1 16 i ആണ് എന്തെന്നാൽ ഈ ബ്രാഞ്ചിലൂടെ ഉള്ള കറന്റ് പ്രവേശിക്കുന്നത് ടെർമിനലിൽ കൂടെ ആണ് അതിനാൽ v 1 16 i ആണ് അതുപോലെ ഇനി v2 എടുത്താൽ ഇവിടെ പോസിറ്റീവ് ടെർമിനലിൽ ആണ് കറന്റ് പ്രവേശിക്കുക അതിനാൽ v2 എന്നത് 6 i2 ആയിരിക്കും അപ്പോൾ v2 എന്നത് 6 i2 ആയിരിക്കും അതിനാൽ i3 എന്നത് പോസിറ്റീവ് ടെര്മിനലിലേക്കു പ്രവേശിക്കുകയാണ് അതിനാൽ v3 എന്നത് 12 i3 ആയിരിക്കും അപ്പോൾ v3 12 i3 ഇപ്പോൾ v1 v2 v3 എല്ലാം തന്നെ i1 i12 പിന്നെ i3 യുടെ ടെം ആയി ലഭിച്ചു ഇനി ഇക്വേഷൻ 3 യിൽ നിന്നും v 3 v 2 എന്ന് മനസിലാക്കാം അതിന്റെ അർഥം v 3 12 ആണ് പിന്നെ v 2 6 i2 അതായതു i2 2 i 3 എന്ന പുതിയ റിലേഷൻ ലഭിച്ചു ഞാൻ ഉദ്ദേശിച്ചത് ഈ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള വഴി ആണ് ഈ ഇക്വേഷൻ 1 ഉം 4 ഉപയോഗിച്ച് ഇക്വേഷൻ 1 ഉം 5 നേടുക ഇനി ഇക്വേഷൻ 1 ലേക്ക് വരിക ഇതാണ് ഇക്വേഷൻ 5 അത് i2 2 i 3 ആണ് അത് ഇവിടെ കൊടുക്കുക i2 2 i 3 അങ്ങനെ ചെയ്താൽ കിട്ടും i 1 i2 i 3 i2 2 i 3 അപ്പോൾ i 1 3 i 3 ഇനി ഇക്വേഷൻ 4 ൽ നിന്നും v 1 16 i 1 and v 2 6 i2 എന്നത് കൊടുത്തു നമുക്ക് ഇക്വേഷൻ 2 ലഭിക്കും നമുക്ക് 60 16 i 1 6 i2 0 എന്ന് ലഭിക്കും അല്ലെങ്കിൽ 2 സൈഡും 2 വച്ച് ഡിവൈഡ് ചെയ്യുക സോറി അത് 30 8 i 1 3 i2 0 ആണ് ഇപ്പോൾ ഇനി i 1 3 i 3 പിന്നെ i2 2 i 3 എന്നും കൊടുക്കുക അതാണ് ഇക്വേഷൻ 7 ഇതെല്ലാം i 1 3 3 i 3 i2 2 i 3 എല്ലാം തന്നെ മാത്തമറ്റിക്കൽ ആയി റോപപ്പെടുത്തേണ്ടതാണ് ഒന്നിന് ശേഷം ഒന്നായി കൊടുക്കേണ്ടതും ആണ് ഈ കാണിച്ചിരിക്കുന്നത് മനസ്സിലാക്കാനാകുന്നതാണ് അങ്ങനെ ചെയ്താൽ അത് 30 8 3 i 3 3 2 i 3 0 എന്ന് ലഭിക്കും അല്ലെങ്കിൽ 24 i 3 6 i 3 30 അതും അല്ലെങ്കിൽ i 3 1 ആംപിയർ നമുക്ക് ഈ ഡയറക്ഷൻ ആണ് ലഭിച്ചത് i2 2 i 3 ആണ് അതിനാൽ i2 2 ആംപിയർ i 1 3 i 3 i 3 1ആംപിയർ അതിനാൽ i 1 3 ആംപിയർ ഇനി v 1 16 i 1 അപ്പോൾ 16 3 അതിനാൽ 48 വോൾട് പിന്നെ v 2 6 i2 അത്കൊണ്ട് 6 i2 അതായതു 6 2 എന്തെന്നാൽ i2 2 ആംപിയർ ആണല്ലോ അതുകൊണ്ടു 12 വോൾട് പിന്നെ v 3 12 i 3 12 1 12 വോൾട് ഇത് എളുപ്പത്തിൽ സോൾവ് ചെയ്യാം നാം ചെയ്യേണ്ടത് വേഗത്തിൽ അത് സോൾവ് ആക്കാം ഒരു ഇക്വേഷൻ മറ്റൊരു ഇക്വേഷൻ ൽ കൊടുത്തു കൊണ്ട് ഇവിടെ നമുക്ക് ഈ ഫിഗർ 2 23 യിലെ സർക്യൂട്ടിൽ ഉള്ള വോൾടേജ് v0 ആണ് കണ്ടു പിടിക്കേണ്ടത് അതോടൊപ്പം v1 പിന്നെ v2 എന്നിവയും കണ്ടു പിടിക്കുക ഇതാണ് സർക്യൂട് ഇത് 4 ആമ്പിയർ കറന്റ് സോഴ്സ് ആണ് ഇത് ഒരു 1Ω റെസിസ്റ്റർ ആണ് ഇത് ഒരു വോൾടേജ് സോഴ്സ് സോറി റെസിസ്റ്റർ 2Ω ഇതിനു കുറുകെ ആണ് വോൾടേജ് v0 ഇവിടെ വോൾടേജ് v2 പിന്നെ ഇവിടെ വോൾടേജ് v1 ഇത് കറന്റ് സോഴ്സ് 5 i1 അത് ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ആണ് അത് 5 i1 അത് ഇതിലൂടെ ആണ് പോകുന്നത് അതിനാൽ ഇത് 4 ആമ്പിയർ കറന്റ് സോഴ്സ് അതിലൂടെ ആണ് ബ്രാഞ്ച് കറന്റ് i2 പോകുന്നത് ഇതാണ് കറന്റ് i1 പിന്നെ ഇത് i3 നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ഈ സർക്യൂട്ടിൽ വോൾടേജ് v0 കണ്ടു പിടിക്കുക അതോടൊപ്പം v1 v2 എന്നിവയും കണ്ടെത്തുക ഇനി ഇവിടെ KCL അപ്ലൈ ചെയ്താൽ ഇവിടെ നോഡ് 1 നോഡ് 2 എന്നിവ മാർക്ക് ചെയ്യുക അത് നമുക്ക് ഈ പടത്തിൽ കാണാം അപ്പോൾ ഈ KCL ഇവിടെ അപ്ലൈ ചെയ്യുക നമുക്ക് i 1 i2 4 എന്ന് കിട്ടും ഇത് 4 ആംപിയർ കറന്റ് സോഴ്സ് ആണ് ഈ കറന്റ് ഇവിടെ പ്രവേശിക്കുകയാണ് ഈ i1 എന്നത് പുറത്തേക്ക് പോകുന്നു ഒപ്പം ഈ i 2 അതിനാൽ ഇൻകമിംങ് കറന്റ് എന്നത് i 1 i2 ആണ് അപ്പോൾ i 1 i2 4 ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു ഇനി നോഡ് 2 ൽ KCL അപ്ലൈ ചെയ്യുന്നു കറന്റ് i1 എന്നത് പ്രവേശിക്കുന്നു പിന്നെ i3 എന്നത് പുറത്തേക്കു പോകുന്നു പിന്നെ i3 യും പുറത്തേക്കു പോകുന്നു ഇത് 5 i1 ഇതൊരു ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ആണ് അതും പുറത്തേക്കു ആണ് അപ്പോൾ ഇത് 5 i1 ആണ് അപ്പോൾ ഇത് i 1 5 i 1 i 3 ആണ് ഞാൻ ഇത് ആദ്യം ക്ലീൻ ആക്കുന്നു അതിനാൽ i 3 5 i 1 i 1 ഇത് i 3 5 i 1 ആണ് ഇത് രണ്ടും പുറത്തേക്കു പോകുകയാണ് i2 i 1 അതിനാൽ i 1 r i 3 5 i 1 അല്ലെങ്കിൽ i 3 4 i 1 ഇനി ഈ ഇക്വേഷൻ ൽ KVL അപ്ലൈ ചെയ്യുന്നു നാം ഈ ലൂപ്പ് 1 ൽ നാം KVL അപ്ലൈ ചെയ്യുന്നു ഞാൻ ഈ എഴുതുന്ന ഈ രീതിയിൽ ആണ് നാം കാണുക ഞാൻ ഈ v0 യിൽ നിന്നും തുടങ്ങുന്നു ആദ്യം കാണുക ആണ് അതിനാൽ v0 ആണ് വീണ്ടും നാം ക്ലോക്ക് വൈസ് പോകുന്നു അത് v1 എന്നാൽ ഇവിടെ നാം കാണുക സൈൻ ആണ് നാം ക്ലോക്ക് വൈസ് ആണ് നീങ്ങിയത് അതിനാൽ ഇത് v 2 0 അതിനാൽ ഇത് v0 v 1 v 2 0 ഇതിൽ v0 2 i 1 ആണ് എന്തെന്നാൽ ഇതാണ് എന്റെ v0 ഇത് ഈ കറന്റ് i1 എന്നത് ഈ ടെർമിനലിൽ പ്രവേശിക്കുകയാണ് ഓംസ് ലോ ഉപയോഗിച്ച് നമുക്ക് പറയാം v0 2 i 1 അതിനാൽ ഇവിടെ ഇത് v0 2 i2 i 1 ഇനി v1 ആണ് ഈ i 3 എന്നത് ഇവിടെ പോസിറ്റീവ് ടെർമിനലിൽ പ്രവേശിക്കുകയാണ് അതിനാൽ v 1 എന്നത് 2 2 5 i 3 ആണ് ഇനി v 1 എന്നത് 2 5 i 3 പിന്നെ v 2 10 i2 പിന്നെ ഇത്v 2 പിന്നെ കറന്റ് i2 ഇവിടെ പോസിറ്റീവ് ടെർമിനലിൽ ആണ് പ്രവേശിക്കുന്നത് അതിനാലാണ് ഇത് 10 i2 ആയതു അപ്പോൾ 10 i2 0 ആണ് ഇനി ഇക്വേഷൻ 3 ൽ നിന്നും നമുക്ക് രൂപപ്പെടുത്തി ഇക്വേഷൻ 1 ലഭിക്കും അപ്പോൾ ഈ ഇക്വേഷൻ 3 യിൽ ഇത് കൊടുത്താൽ നമുക്ക് i 1 20 ആംപിയർ എന്ന് ലഭിക്കും ഇത് നമുക്ക് മനസ്സിലാക്കാനാകുന്ന കാര്യമാണ് ഇനി ഇവിടെ യാതൊരു വിധ കുഴപ്പങ്ങളും ഉണ്ടാകുന്നതല്ല ഇത് ഇക്വേഷൻ ൽ നിന്നും ഇക്വേഷൻ ലേക്കാണ് ഇക്വേഷൻ 1 2 പിന്നെ 3 എന്ത് തന്നെ ആണെങ്കിലും അത് ഒരു റിലേഷൻ ൽ നിന്നും മറ്റൊന്നിലേക്കാണ് എല്ലാം ഇവിടെ കൊടുക്കുക നമുക്ക് i 1 20 ആംപിയർ എന്ന് ലഭിക്കും അതിനാൽ v0 2 i 1 ആണ് എന്തെന്നാൽ v0 2 i 1 2 i 1 അതിനാൽ നമുക്ക് v0 2 20 അത് നമുക്ക് 40 വോൾട് എന്ന് ലഭിക്കും പിന്നെ v 2 10 i2 അതിനാൽ 10 i2 നോക്കിയാൽ കാണാം i2 4 i 1 ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ എഴുതുന്നു അത് i2 4 i 1 ഇതിൽ i1 എന്നത് 20 ആണ് ആ വാല്യൂ കൊടുക്കുക നമുക്ക് 20 16 ആംപിയർ എന്ന് കിട്ടും അതിനാൽ i2 4 1 ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു ഇത് വളരെ ചെറിയ കാര്യം ആണ് 10 4 20 അതിനാൽ 16 10 160 വാട്ട് സോറി വോൾട് അത് v 2 160 വോൾട് നാം എന്തെല്ലാം ആണ് പഠിച്ചത് അത് കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ Kirchhoff's first law പിന്നെ സെക്കന്റ്ലോ ഇതെല്ലാം ന്യൂമെറിക്കൽ ആണ് അത് ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് പിന്നെ കറന്റ് സോഴ്സ് എന്നിവ പരിഗണിക്കാതെ ആണ് ഇതിന്റെ എല്ലാം പൊളാരിറ്റി കൺവെൻഷൻ പിന്നെ എങ്ങനെ KCL KVL എന്നിവ അപ്ലൈ ചെയ്യാം പിന്നെ എങ്ങനെ വോൾടേജ് ഡ്രോപ്പ് വോൾടേജ് റൈസ് എന്നിവ കണ്ടെത്താം പിന്നെ ഓംസ് ലോ KCL പിന്നെ KVL നാം വീണ്ടും വരുന്നതാണ്